ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ മൂലമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ II ഒരു റിങ്ങും ഒരു സ്ഫറിക്കൽ ഷെൽ ചാർജ്ജും കഴിഞ്ഞ ലെക്ച്ചറിൽ നാം ഒരു ഫൈനൈറ് ലൈൻ ചാർജിന്റെയും പിന്നീട് ലിമിറ്റ് എൽ ഇൻഫിനിറ്റി ആകുന്നതിന്റെയും പൊട്ടൻഷ്യൽ കണക്കാക്കി ഈ ലെക്ച്ചറിൽ നാം ആർ റേഡിയസ് ഉള്ള ഒരു റിങ്ങിന്റെ ആക്സിസിൽ z അകലത്തിൽ ഉള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കണക്കാക്കാം ഇത് നാം നേരത്തെ ചെയ്ത ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കിയതിനെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ് എന്തെന്നാൽ V z കണക്കാക്കുന്നതിന് ഒരു ചെറിയ ചാർജ് d Q എടുത്ത് അതിനെ നാലു പൈ എപ്സിലോൺ 0 കൊണ്ട് ഹരിച്ച് ദൂരം കൊണ്ട് ഗുണിച്ച് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ ലഭിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത് വളരെ എളുപ്പമാണ് എന്തെന്നാൽ റിങ്ങിന്റെ ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്നും റിങ്ങിലെ എല്ലാ എലെമെന്റുകളിലേക്കുമുള്ള ദൂരം തുല്യമാണ് ഈ ദൂരം z സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിന്റെ റൂട്ട് ആണ് ആർ എന്നത് റിങ്ങിന്റെ റേഡിയസ് ആണ് അതിനാൽ ഇന്റഗ്രേഷൻ d Q വിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അപ്പോളിത് ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 Q ബൈ സ്ക്വയർ റൂട്ട് z സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ് ഇത് വളരെ ലളിതമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു അസ്സൈന്മെന്റ് നൽകാം ഇതിൽ നിങ്ങൾ z ദിശയിലുള്ള പൊട്ടൻഷ്യലിന്റെ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ അതിന്റെ z ഘടകം ഉപയോഗിച്ച് z എന്ന പോയിന്റിലെ ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കുക ഇതുപയോഗിച്ച് ഞാനിപ്പോൾ ഒരു ചാർജ്ഡ് ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ കണക്കാക്കാൻ പോകുകയാണ് ഈ ഷെല്ലിന്റെ റേഡിയസ് R ആണ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മ ആണ് നിങ്ങൾക്ക് ഉത്തരം ഇപ്പോൾത്തന്നെ അറിയാമെങ്കിലും ഇത് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ കാണുന്നതിനായുള്ള കണക്കു കൂട്ടലിന്റെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന തിന്റെയും ഒരു പ്രാക്ടീസ് ആകും അപ്പോൾ സൌകര്യത്തിനു വേണ്ടി ഞാൻ z ആക്സിസിലെ പൊട്ടൻഷ്യൽ കണക്കാക്കുന്നു സ്ഫറിക്കൽ സിമെട്രി കാരണം പൊട്ടൻഷ്യൽ തുല്യ ദൂരത്തിൽ എല്ലായിടത്തും തുല്യമായിരിക്കും അപ്പോൾ പിന്നീട് എനിക്ക് z ന് പകരം r ഉപയോഗിക്കാം r എന്നത് റിങ്ങിന്റെ സെന്ററിൽ നിന്നുള്ള ദൂരം അപ്പോൾ ഈ റേഡിയസ് R ഞാൻ സെന്റെറിൽ നിന്നും z അകലത്തിലുള്ള പൊട്ടൻഷ്യൽ കണക്കാക്കുന്നു ഞാൻ സ്ഫറിക്കൽ പോളാർ കോ ഓർഡിനേറ്റ്കൾ ഉപയോഗിക്കുന്നു ഞാൻ ഇവിടെ ആംഗിൾ തീറ്റയിലുള്ള ചാർജിന്റെ ഒരു റിങ് എടുത്താൽ എനിക്ക് ഈ റിങ് ഒരു പൊട്ടൻഷ്യൽ d V നൽകും ഇത് ഈ റിങ്ങിന്റെ ചാർജിനു സമമാണ് നാം ഇതിപ്പോൾ കണക്കാക്കി ഇത് ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം റിങ്ങിൽ നിന്നുള്ള അകലം ആണ് റിങ്ങിന്റെ പെരിഫെറിയിൽ നിന്ന് പോയിന്റിലേക്കുള്ള അകലം z മൈനസ് R കോസൈൻ തീറ്റ സ്ക്വയർ പ്ലസ് R സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നതിന്റെ സ്ക്വയർ റൂട്ട് ആണ് അപ്പോളിത് ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം സിഗ്മ d s ബൈ റൂട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് രണ്ട് z R കോസ് തീറ്റ ആണ് d s എന്നത് റിങ്ങിന്റെ ഏരിയ ആണ് ഒരു മുൻ ലെക്ച്ചർ ഓർമ്മിക്കുക അതിൽ d s എന്നത് R സ്ക്വയർ d കോസൈൻ തീറ്റ d ഫൈ എന്ന് നാം കണ്ടു V എന്നത് പൊട്ടൻഷ്യലാണ് d V എന്നതിനെ വോളിയം ഇന്റെഗ്രേലുമായി തെറ്റിദ്ധരിക്കാതിരിക്കുക d V എന്നത് സമം ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം സിഗ്മ R സ്ക്വയർ d കോസ് തീറ്റ d ഫൈ ബൈ റൂട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് രണ്ട് z R കോസ് തീറ്റ ആണ് താഴെ ഫോർമുല കാണുക ഒരു മുന്നറിയിപ്പ് എന്തെന്നാൽ ഞാനിവിടെ d ഫൈ എന്നെഴുതി പക്ഷെ d ക്യൂവിന് പകരം ഞാൻ റിങ്ങിന്റെ ചാർജ് എന്നെഴുതി അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഫൈ ഇന്റഗ്രേഷൻ ആദ്യമേ തന്നെ ചെയ്തിരിക്കണം എന്തെന്നാൽ അത് റിങ്ങിന്റെ ആകെ ചാർജ് ആണ് ഞാൻ ഇത് വ്യക്തമായി എഴുതിയതിന് കാരണം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഇന്റെഗ്രാന്റിൽ ഫൈ ഉണ്ടാകില്ല അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ എഴുതേണ്ടിയിരുന്നത് ഞാൻ ഇത് തിരുത്തട്ടെ ഇത് ഇവിടെ d ഫൈ യുടെ ആവശ്യമില്ല എന്ന് നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് റിങ്ങിന്റെ ആകെ ചാർജ് കണ്ടു പിടിച്ചിരിക്കണം അതിനാൽ റിങ്ങിന്റെ ആകെ ഏരിയ രണ്ട് പൈ R സ്ക്വയർ d കോസൈൻ തീറ്റ എന്ന് എഴുതുന്നു അതിനാൽ സെഡിലെ പൊട്ടൻഷ്യൽ യഥാർത്ഥത്തിൽ V z എന്നത് സമം ഒന്ന് ബൈ നാലു പൈ എപ്സിലോൺ 0 ഗുണം സിഗ്മ R സ്ക്വയർ d കോസ് തീറ്റ ഗുണം രണ്ട് പൈ ബൈ റൂട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് രണ്ട് z R കോസ് തീറ്റ ആണ് കോസൈൻ തീറ്റ മൈനസ് ഒന്ന് മുതൽ ഒന്ന് വരെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു ഈ ഉത്തരം രണ്ടു പൈ ക്യാൻസൽ ചെയ്യപ്പെടുമ്പോൾ രണ്ടു കിട്ടുന്നു അപ്പോൾ സിഗ്മ ബൈ രണ്ട് പൈ എപ്സിലോൺ 0 ഗുണം R സ്ക്വയർ ഇന്റഗ്രേഷൻ മൈനസ് ഒന്ന് മുതൽ ഒന്ന് വരെ d കോസൈൻ തീറ്റ എനിക്കിതിനെ d x ബൈ റൂട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് രണ്ട് z R x എന്ന് എഴുതാം ഈ ഇന്റഗ്രേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എനിക്കിത് സിഗ്മ R സ്ക്വയർ ബൈ രണ്ട് എപ്സിലോൺ 0 ഗുണം മൈനസ് ഒന്ന് ബൈ രണ്ട് z ആർ ഗുണം പ്ലസ് രണ്ട് ഗുണം റൂട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് രണ്ട് z R x ഒന്ന് മുതൽ പ്ലസ് ഒന്ന് വരെ ഈ രണ്ട് ഈ രണ്ടുമായി ക്യാൻസൽ ചെയ്യപ്പെടുന്നു ഈ R ഒരു R മായി ക്യാൻസൽ ചെയ്യുന്നു അങ്ങനെ എനിക്ക് അവസാന ഉത്തരം സിഗ്മ ആർ ബൈ രണ്ട് എപ്സിലോൺ 0 z ഉള്ളിൽ ഇത് z പ്ലസ് R മൈനസ് മോഡ്യൂലസ് z മൈനസ് R ഇതാണ് ഉത്തരം അപ്പോൾ ഈ ഉത്തരം എന്താണെന്ന് നോക്കാം ഇത് സിഗ്മ ആർ ബൈ രണ്ട് എപ്സിലോൺ 0 z പ്ലസ് R മൈനസ് മോഡുലസ് z മൈനസ് R z R നേക്കാൾ വലുതാണെങ്കിൽ ഇത് സിഗ്മ ആർ ബൈ രണ്ട് എപ്സിലോൺ 0 z പ്ലസ് R മൈനസ് z പ്ലസ് R അപ്പോൾ രണ്ട് സിഗ്മ R സ്ക്വയർ ബൈ രണ്ട് എപ്സിലോൺ 0 z എന്ന് കിട്ടും ഇതിനെ നാലു പൈ R സ്ക്വയർ സിഗ്മ ബൈ നാലു പൈ എപ്സിലോൺ 0 z എന്നെഴുതാം ഇപ്പോൾ എനിക്ക് z നു പകരം R എഴുതാം അതിനാൽ R ലെ V സമം Q ബൈ നാലു പൈ എപ്സിലോൺ 0 R ആണ് അപ്പോൾ ഷെല്ലിനുള്ളിലെ കാര്യം എങ്ങിനെയാണ് ഇവിടെ z R നേക്കാൾ കുറവാണ് അതിനാൽ V z എന്നത് സിഗ്മ ആർ ബൈ രണ്ട് എപ്സിലോൺ 0 z പ്ലസ് R മൈനസ് R പ്ലസ് z എന്നാകും R ക്യാൻസൽ ചെയ്യപ്പെടുന്നു അപ്പോൾ സിഗ്മ ആർ ബൈ എപ്സിലോൺ 0 അതായത് നാലു പൈ സിഗ്മ R സ്ക്വയർ നാലു പൈ എപ്സിലോൺ 0 R ആകും ഇത് Q ബൈ നാലു പൈ എപ്സിലോൺ 0 R ആണ് ഇതിനർത്ഥം ഷെല്ലിനുള്ളിൽ V കോൺസ്റ്റന്റ് ആണ് അപ്പോൾ V എങ്ങിനെയാണ് വ്യത്യാസപ്പെടുന്നത് V ആർ ഉള്ളിൽ കോൺസ്റ്റന്റ് ആണ് അത് Q ബൈ നാലു പൈ എപ്സിലോൺ 0 R ആകുന്നു ഉള്ളിലെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആകയാൽ അതിന്റെ ഗ്രേഡിയൻറ് 0 ആണ് അതിനാൽ ഉള്ളിലെ ഫീൽഡ് 0 ആണ് അതിനു ശേഷം വെളിയിൽ ഒന്ന് ബൈ ആർ സ്ക്വയർ ആയിരിക്കും